സോഫ്റ്റ്വെയർ പ്രോജക്ട് മാനേജ്മെന്റ്കോഴ്സിലേക്ക് സ്വാഗതം നേരത്തെ പ്രദർശിപ്പിച്ചതുപോലെ കോഴ്സ് ഞാനും പ്രൊഫസർ ദുർഗ പ്രസാദ് മോഹപത്രയും കൈകാര്യം ചെയ്യും എന്റെ പേര് രാജിബ് മാൾ ഡിസ്പ്ലേയിൽ നിങ്ങൾക്ക് കാണാമല്ലോ ഞാൻ ഐഐടി ഖരഗ്പൂരിലെ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിങ് വിഭാഗത്തിൽ ആണ് ഇന്ന് നമ്മൾ ചില ആമുഖ ചർച്ചകൾ നടത്തും ആദ്യം എന്നെ കുറിച്ചാണ് പേര് രാജിബ് മാൾ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബാംഗ്ലൂരിൽ നിന്നാണ് ബാചിലേഴ്സ് മാസ്റ്റേഴ്സ് പിഎച്ഡി എല്ലാം ചെയ്തത് ആ ഇൻസ്റ്റിട്യൂട്ടിൽ ആണ് പഠിച്ചത് പിന്നീട് മോട്ടറോള ഇന്ത്യയിൽ ഏകദേശം 3 വർഷത്തോളം ജോലി ചെയ്തു പിന്നീട് 1994 ൽ ഐഐടി ഖരഗ്പൂരിലേക്ക് മാറി നിലവിൽ സിഎസ്ഇ വകുപ്പിൽ പ്രൊഫസ്സർ ആണ് ഇത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഖരഗ്പൂർ കെട്ടിടം ആണ് ഈ ആമുഖ പ്രഭാഷണത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ നോക്കാം നമ്മൾ ആദ്യം എന്താണ് സോഫ്റ്റ്വെയർ പ്രൊജക്റ്റ് മാനേജ്മന്റ് എന്ന് പരിജയപ്പെടുത്തും സോഫ്റ്റ്വെയർ പ്രൊജക്റ്റ് മാനേജ്മന്റ് ട്രഡീഷണൽ പ്രൊജക്റ്റ് മാനേജ്മെന്റിൽ നിന്നും ഏതെങ്കിലും തരത്തിൽ വ്യത്യസ്ഥമാണോ ജോലികൾ പ്രോജെക്ടുകൾ എക്സ്പ്ലോറേഷൻ വർക്കുകൾ തമ്മിലുള്ള വ്യത്യാസം എന്താണ് സോഫ്റ്റ്വെയർ പ്രൊജക്റ്റ് ആസൂത്രണത്തെ ബുദ്ധിമുട്ടുള്ളതാക്കുന്നത് പ്രൊജക്റ്റ് സ്കോപ്പ് എന്നത് കൊണ്ട് നമ്മൾ എന്താണ് അർത്ഥമാക്കുന്നത് എന്തുകൊണ്ട് അത് പ്രധാനമാകുന്നു ഒരാൾ എങ്ങനെ പ്രൊജക്റ്റ് സ്കോപ്പിനെ നിർവജിക്കും ഇതെല്ലാം ആണ് നമ്മൾ ഈ ആമുഖ പ്രഭാഷണത്തിൽ ചർച്ച ചെയ്യുന്ന അടിസ്ഥാന വിഷയങ്ങൾ ഗാർട്ട്നർ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ലോകമെമ്പാടുമുള്ള ഐടി ചെലവ് വളരെ വലുതാണ് 2014 ൽ ഏകദേശം 3 5 ട്രില്യൺ ഡോളർ ക്രമേണ ഏകദേശം 4 ട്രില്യൺ ഡോളറായി വർദ്ധിക്കുകയും താരതമ്യം ചെയ്യുമ്പോൾ ഇന്ത്യയുടെ മൊത്ത ആഭ്യന്തര ഉൽപാദനവുമായി ഏകദേശം 2 5 ട്രില്യൺ ഡോളർ അതിനാൽ ഐടി ചെലവ് ഇന്ത്യയുടെ എല്ലാ ആഭ്യന്തര ഉൽപാദനത്തേക്കാൾ വളരെ വലുതാണ് അതിനാൽ സോഫ്റ്റ്വെയർ നമ്മുടെ ജീവിതത്തിന്റെ ഒരു പ്രധാന ഭാഗമായിത്തീർന്നിരിക്കുന്നു നമ്മൾ ധാരാളം പണം ചെലവഴിക്കുന്നു സോഫ്റ്റ്വെയർ നമ്മൾ പലയിടത്തും സോഫ്റ്റ്വെയർ കണ്ടുമുട്ടുന്നു പ്രത്യേകിച്ചും ഇന്ത്യയിൽ നമ്മൾ ഒരു സോഫ്റ്റ്വെയർ പവർഹൌസ് എന്നറിയപ്പെടുന്നു ധാരാളം സോഫ്റ്റ്വെയർ വികസിക്കുന്നു ധാരാളം കമ്പനികൾ ഉണ്ട് അവർ സോഫ്റ്റ്വെയർ വികസിപ്പിക്കുന്നതിനായി ധാരാളം പ്രോജക്ടുകൾ ഏറ്റെടുക്കുന്നു അതിനാൽ ഇത് ലോകമെമ്പാടുമുള്ള ഒരു പ്രധാന വിഷയമാണ് പ്രത്യേകിച്ചും സോഫ്റ്റ്വെയർ വികസനത്തിന്റെ വലിയൊരു ഭാഗം നടക്കുന്ന ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പക്ഷെ എന്നിട്ടും എല്ലാവരും പറയുന്നു സോഫ്റ്റ്വെയർ പ്രതിസന്ധിയുണ്ടെന്ന് എന്നാൽ എന്താണ് ഈ പ്രതിസന്ധി ആദ്യം നമുക്ക് പ്രതിസന്ധി മനസ്സിലാക്കാം പ്രതിസന്ധിയുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് പ്രതിസന്ധിയുടെ ലക്ഷണങ്ങൾ പരിശോധിച്ചാൽ ഉപഭോക്താവിന് വികസിപ്പിച്ചതും വിതരണം ചെയ്തതുമായ സോഫ്റ്റ്വെയർ പലപ്പോഴും ഉപഭോക്താവിന്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിൽ പരാജയപ്പെടുന്നു വളരെ ചെലവേറിയ ഇവ മാറ്റാനും ഡീബഗ് ചെയ്യാനും മെച്ചപ്പെടുത്താനും പ്രയാസമാണ് മാത്രമല്ല ഇവ ഉപഭോക്താവിന് വൈകി വിതരണം ചെയ്യുന്നു ഹാർഡ്വെയറിൽ നിന്ന് വ്യത്യസ്തമാണിത് ഹാർഡ്വെയർ വേഗത്തിൽ വികസിപ്പിക്കുകയും നൽകുകയും ചെയ്യുന്നു അതിനാൽ നമുക്ക് നോക്കാം പ്രതിസന്ധിക്ക് ശേഷം ഇത് എന്താണ് അതിന് കാരണമാകുന്നത് എന്താണ് എങ്ങനെ മറികടക്കാം എല്ലാ പ്രോജക്റ്റുകളുടെയും സ്റ്റാൻഡിഷ് ഗ്രൂപ്പ് റിപ്പോർട്ട് പരിശോധിച്ചാൽ ഏകദേശം മൂന്നിലൊന്ന് വരും ലോകമെമ്പാടുമുള്ള എല്ലാ പദ്ധതികളുടെയും വിജയം ഏകദേശം 30 ശതമാനം വിജയകരമായ പദ്ധതികളെക്കുറിച്ച് നമുക്ക് പറയാൻ കഴിയും 20 ശതമാനത്തോളം പരാജയമാണ് ആ പദ്ധതിയിൽ നിന്ന് ഒന്നും പുറത്തുവരുന്നില്ല പിന്നെ ചെലവ് വിപുലമായ കാലതാമസം ഗുണമേൻമ അഭാവമുള്ളവ തുടങ്ങി ഏകദേശം പകുതി വെല്ലുവിളി നിറഞ്ഞ പദ്ധതികൾ ആണ് പദ്ധതികളുടെ മൂന്നിലൊന്ന് മാത്രമാണ് വിജയിച്ചത് 20 ശതമാനം പരാജയമാണ് തുടങ്ങിയ അത്തരം മോശം കണക്കുകളുടെ പിന്നിലെ കാരണമെന്താണെന്ന് നമുക്ക് നോക്കാം നമ്മൾ ഇപ്പോൾ ഈ സാഹചര്യം പരിശോധിച്ചാൽ കമ്പനികൾ ഹാർഡ്വെയറിനായി ചെലവഴിക്കുന്ന തുകയും സോഫ്റ്റ്വെയറിനായി അവർ ചെലവഴിക്കുന്ന തുകയുമായി താരതമ്യം ചെയ്യുമ്പോൾ അനുപാതം ഗണ്യമായി കുറയുന്നു കമ്പനികൾ ഹാർഡ്വെയറിനായി കുറച്ചു ചെലവഴിക്കുകയും സോഫ്റ്റ്വെയറിനായി കൂടുതൽ ചെലവഴിക്കുകയും ചെയ്യുന്നുവെന്നതാണ് ഇതിനർത്ഥം മറ്റൊരർത്ഥത്തിൽ ഹാർഡ്വെയർ ചെലവുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ സോഫ്റ്റ്വെയർ ചെലവ് വളരെ വേഗത്തിൽ വർദ്ധിക്കുന്നു കമ്പനികൾ അവരുടെ ബജറ്റിന്റെ വലിയൊരു ഭാഗം ഐടിക്ക് വേണ്ടി സോഫ്റ്റ്വെയറിനായി ചെലവഴിക്കുന്നു ഒരു ഉദാഹരണം പറഞ്ഞാൽ സോഫ്റ്റ്വെയർ ചിലവ് എങ്ങനെയാണ് ഒരു ഹാർഡ്വെയർ ചെലവിനെക്കാൾ എത്രയോ കൂടുതലാകുന്നത് എന്ന് അറിയാൻ നിങ്ങൾ വിപണിയിൽ നിന്ന് വാങ്ങുന്ന ഒരു ഡെസ്ക്ടോപ്പിലേക്കോ ലാപ്ടോപ്പിലേക്കോ നോക്കൂ ഹാർഡ്വെയറും അതിന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റവും മറ്റും 45000 ആണ് അതിനാൽ അടിസ്ഥാനപരമായി അസംസ്കൃത ഹാർഡ്വെയർ അതിനേക്കാൾ വളരെ കുറവായിരിക്കും പക്ഷേ നിങ്ങൾക്ക് ലാപ്ടോപ്പ് അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പ് ലഭിക്കുകയും അതിൽ കുറച്ച് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ് ജോലികൾ ചെയ്യണമെന്ന് നിങ്ങൾ പറയുകയും നിങ്ങൾ ഒരു കേസ് ഉപകരണം വാങ്ങുകയും ചെയ്യുന്നു നിങ്ങൾ ഒരു യുക്തിസഹമായ സ്യൂട്ട് നോഡ് ലോക്ക് ചെയ്താൽ 300000 ചിലവാകും അസംസ്കൃത ലാപ്ടോപ്പിന്റെയോ ഡെസ്ക്ടോപ്പിന്റെയോ ഹാർഡ്വെയർ 45000 ൽ കുറവാണെന്ന് നോക്കുക കാരണം 45000 ൽ സോഫ്റ്റ്വെയർ ഓപ്പറേറ്റിംഗ് സിസ്റ്റവും മറ്റും ഉൾപ്പെടുന്നു ഏകദേശം 300000 ചിലവ് വരുന്ന സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ് ടൂൾ പ്രവർത്തിപ്പിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു അതായത് ഫ്ലോട്ടിംഗ് ലൈസൻസ് ലോക്ക് ചെയ്ത ഒരു നോഡ് എത്രയോ കൂടുതലാണ് അതിനാൽ നിങ്ങൾ വാങ്ങുന്നുവെന്നതിലെ വിരോധാഭാസവും അതിൽ ഹാർഡ്വെയർ ഇത്രയും കുറഞ്ഞ വിലയ്ക്കും അതിൽ പ്രവർത്തിക്കുന്ന സോഫ്റ്റ്വെയറും നോക്കൂ ഒരു ഉദാഹരണം മാത്രം നിങ്ങൾ വാങ്ങേണ്ടി വരുന്ന നിരവധി സോഫ്റ്റ്വെയറുകൾ ഉണ്ട് അതിനാൽ അങ്ങനെയാണെന്ന് തോന്നുന്നു സോഫ്റ്റ്വെയർ മാറുകയാണ് ചിലവേറുകയാണ് അതിനാൽ ഹാർഡ്വെയർ ചിലവ് ഏറെക്കുറെ നിസ്സാരമാകും കൂടാതെ നിങ്ങൾ സോഫ്റ്റ്വെയർ വാങ്ങുന്നു ഹാർഡ്വെയർ അതിനൊപ്പം സൌജന്യമായി വരുന്ന സാഹചര്യം വരാൻ പോകുന്നു അതായത് നിങ്ങൾ സോഫ്റ്റ്വെയർ വാങ്ങുന്നു അത് ഒരു ഹാർഡ്വെയറിൽ പ്രീലോഡു ചെയ്തു വരുന്നു ഹാർഡ്വെയർ അടിസ്ഥാനപരമായി സൌജന്യമാണ് പക്ഷേ ഇതിന് കാരണമാകുന്ന പ്രശ്നം എന്താണ് പക്ഷേ അതിനുമുമ്പ് ചിലവ് വളരെ കുറവുള്ളതും വളരെ വേഗത്തിൽ വിതരണം ചെയ്യുന്നതും ആണോ ഹാർഡ്വെയർ എന്ന് നമുക്ക് നോക്കാം സോഫ്റ്റ്വെയറിനെ സംബന്ധിച്ചിടത്തോളം ഹാർഡ്വെയർ ചെലവ് ഏറെക്കുറെ നിസ്സാരമാണ് എന്നും നമ്മൾ പറഞ്ഞു പിന്നെ എന്തുകൊണ്ട് ഹാർഡ്വെയർ സിസ്റ്റങ്ങൾ പൂർണ്ണമായും ഹാർഡ്വെയർ സിസ്റ്റത്തിൽ മാത്രം ഇല്ലാത്തത് കാരണം സോഫ്റ്റ്വെയറിൽ എന്തും പ്രവർത്തിപ്പിക്കാൻ കഴിയും സോഫ്റ്റ്വെയറുമായി നമുക്ക് ചെയ്യാൻ കഴിയുന്ന എന്തും ഹാർഡ്വെയറിനൊപ്പം ചെയ്യാനും കഴിയും സോഫ്റ്റ്വെയർ ചെയ്യുന്നതെന്തും ചെയ്യാൻ ആയി ഹാർഡ്വെയർ രൂപകൽപ്പന ചെയ്യാൻ നമുക്ക് കഴിയും ഉദാഹരണത്തിന് നമുക്ക് ഒരു വേഡ് പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയർ പറയാം നമുക്ക് വേർഡ് പ്രോസസ്സിംഗ് ചെയ്യാൻ കഴിയുന്ന ഒരു ചെറിയ തികച്ചും ഹാർഡ്വെയർ ഘടകം ലഭിക്കും ഈ അടിസ്ഥാന ചോദ്യത്തിന് നമുക്ക് ഉത്തരം നൽകാം എന്തുകൊണ്ടാണ് പൂർണ്ണമായും ഹാർഡ്വെയർ സിസ്റ്റം ഇല്ലാത്തത് സോഫ്റ്റ്വെയറിൽ നിന്ന് എന്ത് കൊണ്ട് രക്ഷപെടുന്നില്ല കാരണം സോഫ്റ്റ്വെയർ കുറെ പ്രശ്നങ്ങൾ ഉണ്ടല്ലോ ചിലവേറിയ ബഗുകൾ വൈകി വിതരണം ചെയ്യുന്നു തുടങ്ങിയവ പക്ഷേ സോഫ്റ്റ്വെയറിന് ചില ഗുണങ്ങളുണ്ട് അതിനാൽ എല്ലാവരും സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നു അല്ലാത്തപക്ഷം പൂർണ്ണമായും ഹാർഡ്വെയർ സിസ്റ്റങ്ങൾ ഉണ്ടാകും പൂർണ്ണമായും ഹാർഡ്വെയർ സംവിധാനമുള്ളതിനുപകരം സോഫ്റ്റ്വെയർ ഉപയോക്താക്കൾ ഇഷ്ടപ്പെടുന്നതിന് കാരണമായ സോഫ്റ്റ്വെയറിന്റെ ഗുണങ്ങളെക്കുറിച്ച് നമുക്ക് നോക്കാം ആദ്യ സദ്ഗുണം മാറ്റാൻ താരതമ്യേന എളുപ്പമാണ് നിങ്ങൾക്ക് കൂടുതൽ പ്രവർത്തനക്ഷമത ചേർക്കാൻ താൽപ്പര്യപ്പെടാം ഒരു പ്രവർത്തനം പരിഷ്ക്കരിക്കാം അടുത്ത പതിപ്പ് വേഗത്തിൽ ദൃശ്യമാകും നിങ്ങളുടെ അഭ്യർത്ഥന നിങ്ങൾക്ക് ഒരു പാച്ച് അയച്ചേക്കാം എന്നിവയാണ് അതിനാൽ സോഫ്റ്റ്വെയർ മാറ്റാൻ വളരെ എളുപ്പമാണ് ഒരു കോഡ് മാറ്റം വരുത്തുക വീണ്ടും കംപൈൽ ചെയ്യുക കഴിഞ്ഞു മറ്റൊരു വലിയ നേട്ടം സ്ഥലമില്ല അതിന് ഭാരം ഇല്ല അല്ലെങ്കിൽ ആന്തരികമായി ഒരു വൈദ്യുതിയോ സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെടുത്തിയിട്ടില്ല എന്നതാണ് നിങ്ങൾ ഒരു വേഡ് പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയർ പ്രവർത്തിപ്പിക്കുകയാണെങ്കിൽ ക്ഷമിക്കണം നിങ്ങൾ കുറച്ച് വേർഡ് പ്രോസസ്സിംഗ് നടത്തുകയായിരുന്നുവെന്ന് സങ്കൽപ്പിക്കുക നിങ്ങൾ വേർഡ് പ്രോസസ്സിംഗിനായി ഹാർഡ്വെയർ വികസിപ്പിച്ചെടുത്തു തുടർന്ന് നിങ്ങൾക്ക് ഒരു എക്സൽ വേണം അതിനായി മറ്റൊരു ഹാർഡ്വെയർ നേടേണ്ടതുണ്ട് കൂടാതെ നിങ്ങൾക്ക് ഒരു ഇമേജ് മാനിപുലേഷൻ സോഫ്റ്റ്വെയർ ക്ഷമിക്കണം ഇമേജ് മാനിപുലേഷൻ ഫംഗ്ഷണാലിറ്റി ചെയ്യാൻ താൽപ്പര്യമുണ്ട് നിങ്ങൾക്ക് മറ്റൊരു ഹാർഡ്വെയർ ഉണ്ടായിരുന്നു പതുക്കെ നിങ്ങളുടെ ഹാർഡ്വെയർ മുഴുവൻ മുറിയിലും ഇടം പിടിക്കും മാത്രമല്ല ഭാരവും സങ്കൽപ്പിക്കുക ഇവയെല്ലാം വൈദ്യുതി ഉപഭോഗിക്കുകയും ചെയ്യും അതാണ് ഹാർഡ്വെയറിന്റെ ഒരു വലിയ പോരായ്മ പക്ഷേ ഹാർഡ്വെയറിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ വലുതായിരിക്കുന്ന വളരെ സങ്കീർണ്ണമായ പ്രവർത്തനത്തിനുള്ള സോഫ്റ്റ്വെയർ പോലും സ്ഥലമോ ഭാരമോ ഹാർഡ്വെയറിൽ പ്രവർത്തിക്കുന്ന ആന്തരിക വൈദ്യുതിയോ ഉപയോഗിക്കുന്നില്ല പിന്നെ അതുകൊണ്ടാണ് സോഫ്റ്റ്വെയർ നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ കൂടുതൽ പ്രധാനമായി വരുന്നത് കൂടുതൽ കൂടുതൽ പ്രവർത്തനങ്ങൾ സോഫ്റ്റ്വെയറിലും ഹാർഡ്വെയറിലും നടപ്പിലാക്കി വരുന്നു അതിനാൽ നമ്മുടെ എല്ലാ പുതിയ പ്രവർത്തനങ്ങൾക്കും ആവശ്യമായ ഒരു അടിസ്ഥാന ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ വികസിപ്പിച്ചെടുക്കുന്നു ഇപ്പോൾ തുടർന്നുള്ള ചർച്ചകൾക്ക് വളരെ പ്രധാനപ്പെട്ട സോഫ്റ്റ്വെയറിന്റെ ചില പ്രധാന സവിശേഷതകൾ നോക്കാം നിരവധി സ്വഭാവസവിശേഷതകൾ ഉണ്ട് എന്നാൽ ഞങ്ങൾ രണ്ട് സവിശേഷതകൾ മാത്രം തിരഞ്ഞെടുത്തു അതിലൊന്ന് കൂടുതൽ സങ്കീർണ്ണമായ ഒരു സോഫ്റ്റ്വെയറാണ് എങ്കിൽ അത് മാറ്റാൻ കൂടുതൽ ബുദ്ധിമുട്ടാണ് എന്തുകൊണ്ടാണ് കാരണം പറയാൻ വളരെ എളുപ്പം ആണ് സോഫ്റ്റ്വെയർ മാറ്റാൻ ആദ്യം നമ്മൾ സോഫ്റ്റ്വെയർ മനസിലാക്കണംഎവിടെയാണ് മാറ്റം വരുത്തേണ്ടത് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം ഏതൊക്കെ വേരിയബിളുകൾ മാറ്റണം അതിനായി എന്ത് കോഡ് എഴുതണം തുടങ്ങിയവയെക്കുറിച്ച് കൂടുതൽ സങ്കീർണ്ണമായ ഒരു സോഫ്റ്റ്വെയറാണെങ്കിൽ സോഫ്റ്റ്വെയർ മനസിലാക്കുന്നതിനും സോഫ്റ്റ്വെയർ കൃത്യമായി എവിടെ എന്ത് മാറ്റം സംഭവിക്കേണ്ടതുണ്ടെന്ന് കണ്ടെത്തുന്നതിനും കൂടുതൽ സമയ പരിശ്രമം ആവശ്യമാണ് രണ്ടാമത്തെ കാര്യം എന്തെന്നാൽ ഓരോ തവണയും നമ്മൾ ഒരു സോഫ്റ്റ്വെയറിൽ മാറ്റം വരുത്തുമ്പോൾ അത് കൂടുതൽ സങ്കീർണ്ണമാകുന്നു ഓരോ തവണയും നമ്മൾ ഒരു സോഫ്റ്റ്വെയർ മാറ്റുമ്പോൾ വിവിധ കാരണങ്ങളാൽ മാറ്റം ആവശ്യമായി വന്നേക്കാം ഒരുപക്ഷേ ഒരു ബഗ് പരിഹരിക്കാൻ ഒരുപക്ഷേ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നതിന് ഒരുപക്ഷേ അത് മികച്ച പ്രകടനമാക്കി മാറ്റാൻ തുടങ്ങിയവ ഒരു നിർദ്ദിഷ്ട സോഫ്റ്റ്വെയർ മാറേണ്ടതിന്റെ നൂറുകണക്കിന് കാരണങ്ങളുണ്ട് ഓരോ മാറ്റത്തിനും സോഫ്റ്റ്വെയർ കൂടുതൽ സങ്കീർണ്ണമാകും എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നത് ചെറിയ മാറ്റങ്ങൾ സംഭവിക്കുന്നു എന്നതാണ് ഉദാഹരണത്തിന് ബഗ് പരിഹരിക്കൽ ചെറിയ പ്രവർത്തനങ്ങളും മറ്റും ചേർത്ത് നമ്മൾ താൽക്കാലിക മാറ്റങ്ങൾ വരുത്തുന്നു സോഫ്റ്റ്വെയറിൽ പ്രാരംഭ സോഫ്റ്റ്വെയർ ഒരു നല്ല രൂപകൽപ്പനയും മറ്റും ഉപയോഗിച്ച് വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് എന്നാൽ ഓരോ ചെറിയ മാറ്റവും വഷളാകുകയോ ഡിസൈൻ മോശമാക്കുകയോ ചെയ്യുന്നു ഇവ ചെറിയ പരിഹാരങ്ങളായി വികസിപ്പിച്ചെടുക്കുന്നു എന്നാൽ അതുകൊണ്ട് ഈ സോഫ്റ്റ്വെയർ കൂടുതൽ സങ്കീർണ്ണമായ മനസ്സിലാക്കാൻ കൂടുതൽ ബുദ്ധിമുട്ടുള്ള മാറ്റം വരുത്താൻ ബുദ്ധിമുട്ടുള്ള ഒന്നാക്കി മാറ്റും ഇപ്പോൾ ഈ പ്രഭാഷണത്തിൽ നമ്മൾ അഭിസംബോധനം ചെയ്യാൻ ശ്രമിക്കുന്ന അടിസ്ഥാന ചോദ്യം നോക്കാം സോഫ്റ്റ്വെയർ പ്രതിസന്ധിയുടെ പിന്നിലെ കാരണം എന്താണ് സോഫ്റ്റ്വെയർ പ്രതിസന്ധിയെ നമ്മൾ പറഞ്ഞ ലക്ഷണങ്ങളായ അത് മോശം ഗുണനിലവാരമുള്ള സോഫ്റ്റ്വെയർ കാലതാമസമുള്ള പ്രോജക്ടുകൾ പ്രോജക്റ്റ് പരാജയം തുടങ്ങിയവയെല്ലാം വിലയേറിയതും മറ്റും കാണിക്കുന്നു സോഫ്റ്റ്വെയർ പ്രതിസന്ധിക്ക് കാരണമാകുന്ന നിരവധി കാരണങ്ങളുണ്ട് ആദ്യത്തേത് വലിയ പ്രശ്നങ്ങളാണ് ഇപ്പോൾ സോഫ്റ്റ്വെയറിന് ഒരുപാട് ഫംഗ്ഷണാലിറ്റികൾ ഉണ്ട് 100 അല്ലെങ്കിൽ 1000 ഫംഗ്ഷണാലിറ്റികൾ അല്ലെങ്കിൽ 10 ഓ 1000 മോ ഫംഗ്ഷനാലിറ്റികൾ ഉണ്ട് ഒരു ലളിതമായ സോഫ്റ്റ്വെയർ പാക്കേജുകൾക്കായി മോശം പ്രോജക്ട് മാനേജുമെന്റ് പ്രോജക്റ്റ് മാനേജ്മെന്റ് ആശങ്കാജനകമായ ഒരു മേഖലയാണ് കാരണം ശരിയായ പ്രോജക്റ്റ് മാനേജർ കൂടാതെ ശരിയായ പ്രോജക്റ്റ് മാനേജുമെന്റ് കഴിവുകളില്ലാതെ അവ വികസിപ്പിച്ചെടുക്കുന്നു സോഫ്റ്റ്വെയർ പ്രതിസന്ധിയുടെ എന്തുകൊണ്ടാണ് പദ്ധതികൾ വൈകി വിതരണം ചെയ്യുന്നത് പരാജയപ്പെടുന്നത് ഇന്നിവയുടെ ഒരു പ്രധാന കാരണം ഇതാണ് മൂന്നാമത്തെ കാര്യം സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിൽ വേണ്ടത്ര പരിശീലനത്തിന്റെ അഭാവമാണ് ഡവലപ്പർമാർ ചില ഡൊമെയ്ൻ പരിജ്ഞാനം ഉപയോഗിച്ച് വികസിപ്പിക്കാൻ തുടങ്ങുന്നു പക്ഷേ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ഡിസൈൻ ആവശ്യകതകളുടെ സവിശേഷത പരിശോധന ചേഞ്ച് മാനേജ്മെന്റ് തുടങ്ങിയവ അവഗണിക്കുന്നു പദ്ധതിയുടെ പാതിവഴിയിൽ നൈപുണ്യ ക്ഷാമം വർദ്ധിപ്പിക്കുന്ന മാൻപവർ വിറ്റുവരവ് പദ്ധതിയുടെ പാതിവഴിയിൽ പ്രധാന വ്യക്തികളിൽ പലരും വളരെ സാധാരണമായി വിട്ടുപോക്കുന്നു ഇത് പദ്ധതിയെ വൈകിപ്പിക്കുന്നു എന്നാൽ മറ്റ്കാരണം കുറഞ്ഞ ഉൽപാദനം മെച്ചപ്പെടുത്തലുകൾ ആണ് വലിയ തോതിൽ സോഫ്റ്റ്വെയർ സ്വമേധയാ എല്ലാ ഓട്ടോമേഷൻ ഓട്ടോമേറ്റഡ് ഉപകരണങ്ങളിലും മറ്റും പ്രവർത്തിക്കുന്നു ഇപ്പോഴും ധാരാളം കോഡ് സ്വമേധയാ എഴുതേണ്ടതുണ്ട് ധാരാളം പരിശോധന സ്വമേധയാ ചെയ്യേണ്ടതുണ്ട് പക്ഷേ മറ്റൊരു അടിസ്ഥാന ചോദ്യം നമുക്ക് മനസിലാക്കാം സോഫ്റ്റ്വെയർ പ്രോജക്ട് മാനേജ്മെന്റ് ഏത് രീതിയിലാണ് മറ്റ് എഞ്ചിനീയറിംഗ് പ്രോജക്റ്റുകളുടെ മാനേജ്മെൻറിൽ നിന്ന് വ്യത്യാസപ്പെടുന്നത് ഞാൻ സോഫ്റ്റ്വെയർ പ്രോജക്റ്റ് മാനേജ്മെന്റും സോഫ്റ്റ്വെയർ അല്ലാത്ത മറ്റു പ്രോജക്റ്റുകളുടെ മാനേജ്മെന്റും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്താണ് എന്ന് ആവർത്തിക്കട്ടെ ആദ്യത്തെ പ്രശ്നം സോഫ്റ്റ്വെയർ അദൃശ്യമാണ് എന്നതാണ് സോഫ്റ്റ്വെയർ പൂർത്തിയായി പ്രവർത്തിക്കുന്നതുവരെ തുടർന്ന് നിങ്ങൾ കാണുന്നില്ല സ്ക്രീനുകൾ ദൃശ്യമാകുന്നത് അത് എന്തെങ്കിലും ചെയ്യുന്നുവെന്ന് മാത്രമേ നിങ്ങൾ കാണൂ പക്ഷേ അത് സംഭവിക്കുന്നത് വരെ ഇത് ഒരു കൂട്ടം പ്രമാണങ്ങളോ ചില കോഡുകളോ മാത്രമാണ് വെറും രേഖകൾ അല്ലെങ്കിൽ കോഡ് നോക്കി നിങ്ങൾക്ക് അതിന്റെ ബാക്കി നിർമ്മിക്കാൻ കഴിയില്ല ഒരുപക്ഷേ വലിയ അളവിലുള്ള കോഡ് എഴുതിയിട്ടുണ്ടാകാം പക്ഷേ സോഫ്റ്റ്വെയർ പൂർണമായും അകലെയാണ് കാരണം പല ബഗുകളും പരിഹരിക്കേണ്ടതുണ്ട് അത് പരീക്ഷിക്കേണ്ടതുണ്ട് എന്താണ് ബുദ്ധിമുട്ടുള്ളത് നമുക്ക് കാണാൻ കഴിയാത്തത് എന്താണോ അത് കൈകാര്യം ചെയ്യാനും ബുദ്ധിമുട്ടാണോ ഉദാഹരണത്തിന് ഒരു വലിയ കെട്ടിടത്തിന്റെ നിർമ്മാണം ഇവിടെ എത്ര സമയം കൊണ്ട് കെട്ടിടം നിർമ്മിക്കാം എന്ന് പ്രോജക്ട് മാനേജർക്ക് കണക്കാക്കാം ചിലപ്പോൾ 6 മാസം വലിയ കെട്ടിടം 6 മാസം തുടർന്ന് കെട്ടിടത്തിന്റെ ബാഹ്യ ഭാഗം പൂർത്തിയായി വരുന്നത് ആന്തരിക ആവശ്യങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ട് എന്നിവ അയാൾക്ക് കാണാൻ കഴിയും ഏത് സമയത്തും അയാൾക്ക് കൃത്യമായി പറയാൻ കഴിയും എത്ര ജോലികൾ അവശേഷിക്കുന്നുവെന്ന് പക്ഷേ സോഫ്റ്റ്വെയറിൽ അങ്ങനെയല്ല രണ്ടാമത്തെ പ്രശ്നം മാറ്റ ആഘാതം ആണ് ഒരു കെട്ടിടത്തിൽ നിങ്ങൾ ചെറിയ മാറ്റങ്ങൾ വരുത്തുന്നു ബിൽഡിംഗ് പ്രോജക്റ്റ് എന്ന് പറയട്ടെ അതിന്റെ സ്വാധീനം എന്തായിരിക്കുമെന്ന് നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് അത് കണക്കാക്കാനും ആവശ്യമായ ചെറിയ മാറ്റം വരുത്താനും കഴിയും മറുവശത്ത് സോഫ്റ്റ്വെയർ വളരെ സങ്കീർണ്ണമാണ് നിങ്ങൾ എന്തെങ്കിലും മാറ്റുന്നു എന്തെങ്കിലും മാറ്റാൻ നിങ്ങൾ ശ്രമിക്കുന്നു കൂടാതെ മറ്റ് പലതും പ്രവർത്തിക്കുന്നില്ല അല്ലെങ്കിൽ തെറ്റായ രീതിയിൽ പ്രവർത്തിക്കുന്നു എന്ന് നിങ്ങൾ കാണുന്നു അതിനാൽ മറ്റ് പ്രോജക്റ്റുകളുടെ കാര്യത്തിൽ ഒരു മാറ്റത്തിന്റെ ആഘാതം തിരിച്ചറിയാൻ വളരെ എളുപ്പമാണ് പക്ഷേ ഒരു സോഫ്റ്റ്വെയർ പ്രോജക്റ്റിൽ ഇത് വളരെ സങ്കീർണ്ണമാണ് മാറ്റങ്ങളുടെ സ്വാധീനം എന്തായിരിക്കുമെന്ന് നിങ്ങൾക്ക് കണക്കാക്കാനാവില്ല പക്ഷേ നിർഭാഗ്യവശാൽ സോഫ്റ്റ്വെയർ അതിവേഗം മാറേണ്ടതുണ്ട് നിങ്ങൾക്ക് ഇത് വേഗത്തിൽ മാറ്റാൻ കഴിയുമെന്ന് നമ്മൾ പറഞ്ഞു സോഫ്റ്റ്വെയറിന്റെ ഒരു ഗുണം അതാണ് അതിനാൽ ഹാർഡ്വെയറുമായി താരതമ്യപ്പെടുത്തുമ്പോൾ സോഫ്റ്റ്വെയറിൽ മാറ്റ അഭ്യർത്ഥനകൾ ദശലക്ഷക്കണക്കിന് കൂടുതലാണ് നിങ്ങൾ ഒരു ഹാർഡ്വെയർ വികസിപ്പിക്കുമ്പോൾ ഒരു മാറ്റ അഭ്യർത്ഥന നൽകുന്നതിനുമുമ്പ് രണ്ടുതവണ ചിന്തിക്കുന്നു കാരണം അത് ഹാർഡ്വെയറിൽ സംയോജിപ്പിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും ഇത് പൂർണ്ണമായും വീണ്ടും ചെയ്യേണ്ടതുണ്ട് അതേസമയം സോഫ്റ്റ്വെയർ മാറ്റാൻ കഴിയുമെന്ന് എല്ലാവർക്കും അറിയാം അതിനാൽ ധാരാളം മാറ്റ അഭ്യർത്ഥനകൾ വരുന്നു മൂന്നാമത്തെ പ്രശ്നം സോഫ്റ്റ്വെയർ പ്രോജക്ടുകൾ ബൌദ്ധിക ജോലിയാണ് എന്നതാണ് ഒരു കെട്ടിടനിർമ്മാണവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇഷ്ടികകൾ സ്ഥാപിക്കേണ്ടതുണ്ട് മേൽക്കൂര നിർമ്മിക്കേണ്ടതുണ്ട് അതിർത്തി മതിൽ നിർമ്മിക്കണം പെയിന്റ് ചെയ്യണം ഇവയെല്ലാം പ്രധാനമായും സ്വമേധയാലുള്ള ജോലിയാണ് സ്വമേധയാലുള്ള ജോലികൾ കണക്കാക്കുന്നത് എളുപ്പമാണ് ഒരു പൈന്റെർക്ക് എത്രമാത്രം പെയിന്റ് പ്രതിദിനം ചെയ്യാനാകുമെന്ന് അല്ലെങ്കിൽ ഒരു തൊഴിലാളിക്ക് പ്രതിദിനം എത്രമാത്രം ഇഷ്ടികകൾ ഇടാൻ കഴിയും എന്നെല്ലാം നിങ്ങൾക്ക് എളുപ്പത്തിൽ കണ്ടെത്താൻ കഴിയും എന്നാൽ സോഫ്റ്റ്വെയർ ഒരു ബൌദ്ധിക സൃഷ്ടിയാണ് ആരെങ്കിലും ചെയ്യുന്ന ജോലിയുടെ സങ്കീർണ്ണത എന്താണെന്നും അവന് എത്രമാത്രം നിർവഹിക്കാൻ കഴിയുമെന്നും കണക്കാക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണ് അതിനാൽ മറ്റ് പ്രോജക്റ്റുകളും സോഫ്റ്റ്വെയർ പ്രോജക്റ്റുകളും തമ്മിലുള്ള മൂന്ന് പ്രധാന വ്യത്യാസങ്ങൾ ഇവയാണ് ആദ്യത്തേത് അദൃശ്യമായ ഒന്നാണ് നിങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത് കൂടാതെ അദൃശ്യമായ എന്തും കൈകാര്യം ചെയ്യാൻ പ്രയാസമാണ് രണ്ടാമത്തെ കാര്യം മാറ്റങ്ങൾ സോഫ്റ്റ്വെയർ പ്രോജക്റ്റുകളിൽ വളരെ പതിവാണ് പക്ഷെ പിന്നീട് മാറ്റത്തിന്റെ ആഘാതം കണക്കാക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണ് മാറ്റത്തിന്റെ ആഘാതം സാധാരണയായി വളരെ വലുതാണ് മാത്രമല്ല ഇത് കണക്കാക്കാനും പ്രയാസമാണ് മൂന്നാമത്തെ കാര്യം സോഫ്റ്റ്വെയർ പ്രോജക്ട് മാനേജുമെന്റിൽ നമ്മൾ ആണ് ബൌദ്ധിക ജോലി കൈകാര്യം ചെയ്യേണ്ടത് സ്വമേധയാലുള്ള ജോലി കൈകാര്യം ചെയ്യുന്നതിനേക്കാൾ വളരെ വലിയ പ്രശ്നമാണിത് സ്വമേധയാലുള്ള ജോലിയിൽ ഒരു ദിവസം എത്രമാത്രം തീർക്കാം പ്രശ്നത്തിന്റെ സങ്കീർണ്ണത എന്താണ് തുടങ്ങിയവ നമുക്ക് എളുപ്പത്തിൽ കണക്കാക്കാം ബൌദ്ധിക ജോലിയിൽ സൃഷ്ടിയുടെ സങ്കീർണ്ണത എന്താണെന്നും അതിനായി എത്രമാത്രം പരിശ്രമം ആവശ്യമാണെന്നും നമുക്ക് കണക്കാക്കാൻ കഴിയില്ല കൂടാതെ മുമ്പത്തെ ചർച്ചയിൽ നിന്ന് നമ്മൾ ഊഹിച്ചതുപോലെ സോഫ്റ്റ്വെയർ പ്രോജക്ട് മാനേജുമെന്റ് കഠിനമാണെന്ന ചോദ്യത്തിലേക്ക് ഇത് നമ്മെ എത്തിക്കുന്നു മറ്റ് തരത്തിലുള്ള പ്രോജക്ടുകൾ കൈകാര്യം ചെയ്യുന്നതിനേക്കാൾ ഇത് വളരെ ബുദ്ധിമുട്ടാണ് സോഫ്റ്റ്വെയർ അദൃശ്യമാണ് നിങ്ങൾക്ക് കാണാൻ കഴിയാത്ത എന്തും കൈകാര്യം ചെയ്യുന്നത് ബുദ്ധിമുട്ടാണ് അത് ബൌദ്ധികവും സങ്കീർണ്ണവുമായ ജോലിയുടെ മാനേജ്മെന്റാണ് ഉപഭോക്തൃ ആവശ്യകതകൾ മാറ്റുന്നത് ഒഴിവാക്കാൻ പറ്റാത്ത നിയമമാണ് കൂടാതെ മാൻപവർ വിറ്റുവരവും ചില പ്രോജക്റ്റുകളിൽ നിങ്ങൾ ഒരു പ്രോജക്റ്റ് മാനേജർ ആയിരിക്കാം എന്നാൽ നിങ്ങളുടെ ചില പ്രധാന ഡവലപ്പർമാർ പ്രോജക്റ്റ് ഉപേക്ഷിക്കുന്നതായി നിങ്ങൾ കണ്ടെത്തും കൂടാതെ അവർ വികസിപ്പിച്ചതിൽ അവർക്ക് ഡൊമെയ്ൻ പരിജ്ഞാനമുണ്ട് അവർ പോയിക്കഴിഞ്ഞാൽ അയാളുടെ ജോലി മനസിലാക്കുകയും ആ സമയം മുതൽ വികസിപ്പിക്കാൻ തുടങ്ങുകയും ചെയ്യുന്ന മറ്റൊരു വ്യക്തിയെ ലഭിക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണ് ഒരു സോഫ്റ്റ്വെയർ പ്രോജക്റ്റ് മാനേജർ അഭിമുഖീകരിക്കുന്ന പ്രധാന പ്രശ്നങ്ങളിൽ ചിലത് ഇവയാണ് പക്ഷേ ഞങ്ങൾ പട്ടികപ്പെടുത്താത്ത ചെറിയ പ്രശ്നങ്ങൾ ഇവിടെയുണ്ട് പക്ഷേ അതിനുമുമ്പ് കൂടുതൽ മുന്നോട്ടു പോകുന്നതിനുമുമ്പ് എന്താണ് പദ്ധതികൾ എന്ന് ചർച്ചചെയ്യാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ജോലികളിൽ നിന്നും പര്യവേക്ഷണങ്ങളിൽ നിന്നും ഇത് എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു ചുമതലകൾ പതിവ് ജോലികളാണ് ഉദാഹരണത്തിന് ഒരു മൂവി ടിക്കറ്റ് വാങ്ങുക അല്ലെങ്കിൽ ഒരു വീഡിയോ പ്രഭാഷണം കാണുക ഇവ ടാസ്ക്കുകളോ ജോലികളോ ആണ് ഇവ വളരെ നന്നായി നിർവചിക്കപ്പെട്ട നന്നായി മനസിലാക്കിയ പ്രവർത്തനത്തിന്റെ വളരെ ചെറിയ അനിശ്ചിതത്വത്തോട് കൂടിയ ആവർത്തനമാണ് ഒരു പ്രഭാഷണം കാണുന്നത് അതെ നിങ്ങൾ അവിടെ ഇരിക്കണമെന്നും കാണാമെന്നും നിങ്ങൾക്കറിയാം അരമണിക്കൂറോളം അവിടെ ഇരിക്കണം മറുവശത്താണ് ഫലം വളരെ അനിശ്ചിതത്വത്തിലായിരിക്കുന്ന പര്യവേക്ഷണം ഉദാഹരണത്തിന് ക്യാൻസറിന് പരിഹാരം കണ്ടെത്തുക അല്ലെങ്കിൽ ആഗോളതാപനത്തിന് പരിഹാരം കണ്ടെത്തുക അതിനാൽ ഇവ പര്യവേക്ഷണമാണ് നിങ്ങളുടെ ജോലി വിജയിക്കുമോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് ഒരിക്കലും അറിയില്ല ഫലം അനിശ്ചിതമാണ് പ്രോജക്റ്റുകൾ രണ്ടിനും ഇടയിൽ ആണ് ഉള്ളത് പ്രോജക്റ്റുകൾക്ക് വെല്ലുവിളിയുണ്ട് ഒപ്പം ചില പതിവ് ജോലികളും ഉൾപ്പെടുന്നു പ്രോജക്റ്റ് മാനേജ്മെന്റ് ഇവിടെ പ്രധാനമായിരിക്കുന്നതിന്റെ കാരണം അതാണ് കാരണം ടാസ്ക്കുകൾക്കോ പര്യവേക്ഷണത്തിനോ നിങ്ങൾക്ക് പ്രോജക്റ്റ് മാനേജുമെന്റ് ആവശ്യമില്ല ഇവ തീർത്തും നൂതനമായ ജോലിയാണ് അതേസമയം നിങ്ങൾക്ക് പ്രൊജക്റ്റ് മാനേജ്മെൻറ് ആവശ്യമുള്ള സ്ഥലമാണ് പ്രോജക്റ്റുകൾ അതാണ് ഇവിടെ പ്രധാനം ഈ ആമുഖ ചർച്ചയിലൂടെ ഞങ്ങൾ ഇവിടെ നിർത്തുന്നു അടുത്ത പ്രഭാഷണത്തിൽ ഇവിടെ നിന്ന് തുടരും